ഗേറ്റ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ട് ഒരു ഇൻപുട്ട് കറൻറ് ii ഒരു റെസിസ്റ്റൻസിന് സമാന്തരമായി ഞാൻ പരിഗണിക്കും ഇത് gmvgs ആണ് ഇവിടെ vgs ആണ് ഈ വോൾട്ടേജ് ഇതാണ് ഗേറ്റ് ഇതാണ് ഡ്രെയിൻ ഇതാണ് സോഴ്സ് ഇപ്പോൾ നമുക്ക് വിശകലനം ശരിയായി ചെയ്യാൻ കഴിയും ഈ വേരിയബിളായി നമ്മൾ vgs എടുക്കുകയാണെങ്കിൽ ഇത് പൂജ്യം വോൾട്ടിലാണ് അതിനാൽ സോഴ്സ് ടെർമിനലിലെ വോൾട്ടേജ് vgs ആണ് കൂടാതെ Rs ൽ ഒഴുകുന്ന കറന്റ് മുകളിലേക്കാണ് പോകുന്നത് അത് vgsRs ന് തുല്യമാണ് ഈ രണ്ട് gmvgs vgsRs എന്നിവയുടെ ആകെത്തുക ii ന് തുല്യമാണ് അതിനാൽ ii gmvgsvgsRs അല്ലെങ്കിൽ ഇത് vgsG എന്നും എഴുതാം ഇവിടെ ഇൻപുട്ട് കറന്റ് സോഴ്സിന്റെ കണ്ടക്റ്റൻസ് GS ആണ് അതിനാൽ vgsiigmGs ആണ് ഔട്ട്പുട്ട് കറന്റ് io എന്താണ് അത് gmvgs ആണ് അതിനാൽ iogmgmGsii നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ioii വേണം ഇത് ഇതിലേക്ക് കുറയുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് gmGS ആണെങ്കിൽ ഇത് ഏകദേശം ii ന് തുല്യമാണ് അല്ലെങ്കിൽ മറ്റൊരു വഴി gmRs1 ആണ് വാസ്തവത്തിൽ സോഴ്സ് ഫോളോവർ കാര്യത്തിലും വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ കാര്യത്തിലും ഇവിടെയും സമാനമായ എക്സ്പ്രെഷൻ നമ്മൾ എല്ലായിടത്തും കാണുന്നു അതിന്റെ സോഴ്സും ഗ്രൌണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഗുണനം gm ഒരു സോഴ്സ് ഫോളോവറിന്റെ കാര്യത്തിൽ ഇത് ലോഡ് റെസിസ്റ്റൻസായി മാറുന്നു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ കാര്യത്തിൽ ട്രാൻസ് കണ്ടക്ടൻസിനെ റെസിസ്റ്റൻസ് നിർവചിക്കുന്നു ഇവിടെ ഇൻപുട്ട് സോഴ്സിന്റെ ആന്തരിക റെസിസ്റ്റൻസാണ് അത് ഒന്നിൽ കൂടുതൽ വലുതായിരിക്കണം അത്തരം സാഹചര്യത്തിൽ ഇത് ഗെയിൻ ഒന്ന് ഉള്ള കറന്റ് ബഫർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഇത് വളരെ ലളിതമായ ലീനിയർ സർക്യൂട്ട് ആണ് നിങ്ങൾക്ക് ഇത് വിശകലനം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ദയവായി തിരികെ പോയി ഇത് വിശകലനം ചെയ്യുക ഇത് വളരെ ലളിതമാണ് gmGS ആണെങ്കിൽ iogmgmGsii എന്നും അത് ii ന് വളരെ അടുത്താണെന്നും നിങ്ങൾ കണ്ടെത്തും ഇപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെയും ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെയും കാര്യമെന്താണ് ഇൻപുട്ട് സോഴ്സ് ഈ പോയിന്റും ഗ്രൌണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് സോഴ്സ് ബന്ധിപ്പിക്കുന്നത് ഒരു വോൾട്ടേജ് VTEST പ്രയോഗിച്ച് കറന്റ് ITEST അളക്കുന്നതിലൂടെ ഞാൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്തും ഇത് വളരെ എളുപ്പമാണ് ഗേറ്റ് വോൾട്ടേജ് പൂജ്യമാണ് സോഴ്സ് വോൾട്ടേജ് VTEST ലാണ് അതിനാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vgs എന്നത് VTEST ന് തുല്യമാണ് അതിനാൽ ഈ കറന്റ് താഴേക്ക് gmVTEST അല്ലെങ്കിൽ മുകളിലേക്ക് അത് gmVTEST ആണ് അതിനാൽ VTESTITEST ആയ ഇൻപുട്ട് റെസിസ്റ്റൻസ് Ri 1gm ന് തുല്യമാണ് അതിനാൽ ഇതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ്1gm ആണ് io ബൈ ii ഗെയിനിന്റെ കണക്കുകൂട്ടലിലും ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ കണക്കുകൂട്ടലിലും ഞാൻ rds നെ അവഗണിച്ചുവെന്നത് ശ്രദ്ധിക്കുക കാരണം rds ഉൾപ്പെടുത്തുന്നത് എക്സ്പ്രഷനെ മാറ്റും പക്ഷേ rds വളരെ വലുതാണെന്ന് കരുതുക അത് ഒരു ഗുണപരമായ മാറ്റവും ഉണ്ടാക്കുന്നില്ല അതിനാൽ ഞാൻ അത് അവഗണിച്ചു അവസാനമായി നമുക്ക് വിലയിരുത്തേണ്ടത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് തീർച്ചയായും നമ്മൾ ഇൻപുട്ട് സോഴ്സ് ii ഉൾപ്പെടുത്തണം അത് സോഴ്സ് റെസിസ്റ്റൻസിന് സമാന്തരമായി പൂജ്യമായി സജ്ജീകരിച്ചിരിക്കുന്നു ഇത് gmvgs ആണ് ഇത് vgs ആണ് കൂടാതെ ലോഡ് ഈ പോയിന്റും ഗ്രൌണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അവിടെയാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്തേണ്ടത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ii പൂജ്യത്തിന് തുല്യമായി സജ്ജമാക്കുമ്പോൾ കൂടാതെ ഇതെല്ലാം സർക്യൂട്ട് ആണെങ്കിൽ സ്ഥിരമായ പരിഹാരം ഈ വോൾട്ടേജ് പൂജ്യമാകാനും ഈ കറന്റ് സോഴ്സ് പൂജ്യമായിരിക്കാനും തൽഫലമായി ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമെന്നും നിങ്ങൾ കാണുന്നു ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനായി നമ്മൾ വിലയിരുത്തിയതും ഇതുതന്നെയാണെന്ന് ഓർമ്മിക്കുക ഇത് കൃത്യമായി അതേ കാര്യമാണ് നമ്മൾ ഇതിനെ അവിടെ R1 എന്ന് വിളിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിനെ Rs എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ പൂജ്യത്തിന് തുല്യമായ gds അല്ലെങ്കിൽ ഇൻഫിനിറ്റിക്ക് തുല്യമായ rds ഉപയോഗിച്ച് Rout വിലയിരുത്തുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റിയായി മാറും ഇത് ഒരു അനുയോജ്യമായ കറന്റ് സോഴ്സ് പോലെ ദൃശ്യമാകും അതിനാൽ ഈ സാഹചര്യത്തിലും rds ന്റെ സാന്നിദ്ധ്യം ഒരു ഗുണപരമായ വ്യത്യാസമുണ്ടാക്കുന്നു ഇത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാക്കും ഇത് പരിമിതമായിരിക്കും ഞാൻ ഇത് വീണ്ടും വിലയിരുത്തില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ കാര്യത്തിൽ കറന്റ് ഇൻപുട്ട് ITEST ഉപയോഗിച്ച് വിലയിരുത്തുന്നത് എളുപ്പമാണ് തുടർന്ന് നിങ്ങൾക്ക് ആദ്യം ഈ വോൾട്ടേജ് കണക്കാക്കാനും അവിടെ നിന്ന് vgs കണക്കാക്കാനും rds വഴി ഒഴുകുന്ന വൈദ്യുതധാര കണക്കാക്കാനും ഉത്തരം കണ്ടെത്താനും കഴിയും ഉത്തരം RoutgmRsrdsrdsRs ആയി മാറും അതിനാൽ ഇത് അനന്തമല്ലെങ്കിലും ഇത് Rs നേക്കാൾ ഒരുപാട് വലുതായിരിക്കും എന്താണ് Rs ഇത് ഇൻപുട്ട് കറന്റ് സോഴ്സിന്റെ റെസിസ്റ്റൻസാണ് കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ റെസിസ്റ്റൻസ് അതിനേക്കാൾ വളരെ കൂടുതലാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അതിനേക്കാൾ വളരെ കൂടുതലാണ് അതിനാൽ ഇതിന്റെ അർത്ഥമെന്താണ് ഇത് നിങ്ങൾക്ക് സമാനമായ കറന്റ് മൂല്യം നൽകുന്നു കാരണം കറന്റ് ഗെയിൻ ഒന്നാണ് എന്നാൽ ഉയർന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അർത്ഥമാക്കുന്നത് അത് കൂടുതൽ മികച്ച കറന്റ് സോഴ്സായി മാറുന്നു തീർച്ചയായും Rout rds നേക്കാൾ വളരെ വലുതാണ് ഇത് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് കാരണം ഈ കറന്റ് ബഫർ ശരിയായി പ്രവർത്തിക്കുന്നതിന് നമ്മൾ gmRs 1 തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിലും ഈ മറ്റ് പദങ്ങളുണ്ട് അവ ഈ പദത്തേക്കാൾ വളരെ ചെറുതായിരിക്കും അത് ആധിപത്യം പുലർത്തുന്ന ഒന്നായിരിക്കും അതിനാൽ ചുരുക്കത്തിൽ നമ്മുടെ കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് ഈ സ്മാൾ സിഗ്നൽ ചിത്രം ഇതുപോലെ കാണപ്പെടുന്നു ഗേറ്റ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇൻപുട്ട് സോഴ്സ് സോഴ്സ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ii Rs ഇത് vgs ആണ് ഇത് gmvgs ആണ് ഇത് rds ആണ് നമുക്ക് RL ഉണ്ട് ഇതാണ് ഔട്ട്പുട്ട് കറന്റ് നമ്മൾ ഇതുവരെ കണക്കാക്കിയത് gmGS ആണെങ്കിൽ ioiigmgmGs1ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് Ri 1gm ഇപ്പോൾ ഈ രണ്ട് പദപ്രയോഗങ്ങളും ഇൻഫിനിറ്റിക്ക് തുല്യമായ rds അല്ലെങ്കിൽ പൂജ്യത്തിന് തുല്യമായ gds ഉപയോഗിച്ച് വിലയിരുത്തി rds ഇൻഫിനിറ്റിയാക്കാതെ ഇത് പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ സങ്കീർണ്ണമായ ഒരു പദപ്രയോഗം ലഭിക്കും പക്ഷേ അടിസ്ഥാനപരമായി ഫലം ഇവ രണ്ടും ആയിരിക്കും ഇപ്പോൾ Rout നെ സംബന്ധിച്ചിടത്തോളം rds നെ അവഗണിക്കുന്നതിൽ അർത്ഥമില്ല കാരണം അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻഫിനിറ്റിയെന്ന് ഉത്തരം ലഭിക്കുന്നു Rout gmRsrds Rs rds ആയിരിക്കും അതിനാൽ ഇത് കറന്റ് ബഫർ പോലെ പ്രവർത്തിക്കുന്നു ഇതിന് ഒരു ചെറിയ ഇൻപുട്ട് റെസിസ്റ്റൻസുണ്ട് ചെറുത് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കണക്റ്റുചെയ്യുന്ന കറന്റ് ഏതെങ്കിലും സോഴ്സിന്റെ റെസിസ്റ്റൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ചെറുതാണ് Rs മായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ചെറുതായിരിക്കണം മാത്രമല്ല ഇത് സംഭവിക്കും കാരണം gm GS ആണ് നിങ്ങൾ ഇത് മാറ്റിയെഴുതിയാൽ Rs 1gm കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് Rs നേക്കാൾ വളരെ ചെറുതായിരിക്കും തുടർന്ന് Rout ഒരു Rs നേക്കാൾ കൂടുതലായിരിക്കും അതിനാൽ ഇത് ഒരു മോശം കറന്റ് സോഴ്സ് എടുക്കുകയും നിങ്ങൾക്ക് മികച്ച കറന്റ് സോഴ്സ് നൽകുകയും ചെയ്യുന്നു അതാണ് കറന്റ് ബഫറിന്റെ പങ്ക് ഗെയിൻ ഒന്നുള്ള കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സാണിത് ഈ സാഹചര്യത്തിൽ ഇത് MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് ടെർമിനൽ എന്നിവയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻപുട്ട് സോഴ്സിനും ഗ്രൌണ്ടിനും ഇടയിൽ പ്രയോഗിക്കുന്നു ഔട്ട്പുട്ട് ഡ്രെയിനിനും ഗ്രൌണ്ടിനും ഇടയിലാണ് ഗേറ്റ് ഗ്രൌണ്ട് ആണ് അതിനാൽ സോഴ്സിനും ഗേറ്റിനുമിടയിൽ ഇൻപുട്ട് പ്രയോഗിക്കുകയും ഡ്രെയിനിനും ഗേറ്റിനുമിടയിൽ ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഗേറ്റ് പൊതുവായതിനാൽ ഇതിനെ കോമൺ ഗേറ്റ് ആംപ്ലിഫയർ എന്നും വിളിക്കുന്നു അതിനാൽ ഇത് കറന്റ് ബഫർ അല്ലെങ്കിൽ ഗെയിൻ ഒന്നായ കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് മാത്രമല്ല ഇത് കോമൺ ഗേറ്റ് ആംപ്ലിഫയർ എന്നും അറിയപ്പെടുന്നു ഒരൊറ്റ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളിൽ ഒന്നാണിത്